സെൽ കൾച്ചർ ടെക്നോളജിയുടെ ക്ലാസുകളിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലെ 2 ക്ലാസുകൾ അവസാനിപ്പിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽ കൾച്ചർ ലാബുകൾ ഡിസൈൻ ചെയ്യുമ്പോളുള്ള ലേയൌട്ടുകളെ പറ്റിയാണ് സംസാരിച്ചത് അതിനെ പറ്റി സംസാരിച്ചപ്പോൾ ഉയർത്തിക്കാണിച്ച ആദ്യത്തെ പോയിൻറ് എന്തെന്നാൽ എന്താണ് ഈ ലാബ് ഉണ്ടാകുന്നതിനു പിന്നിലെ ഉദ്ദേശം അഥവാ ലക്ഷ്യം ഏതൊക്കെ തരം പരീക്ഷണങ്ങളാണ് ഈ ലാബുകളിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ അടുത്ത അഞ്ച് മുതൽ പത്ത് വർഷം വരെയുള്ള നിങ്ങളുടെ പ്ലാനുകൾ എന്തെല്ലാമാണ് ഈ ലാബ് എങ്ങനെയാണ് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ തരം പുതിയ കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്നതിനനുസരിച്ച് ലേഔട്ട്കളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതിനനുസരിച്ച് നമ്മൾ പലതരം ലാബുകളെ പറ്റിയും സംസാരിച്ചിരുന്നു അതായത് നമുക്ക് ഒരു സെൽ ബയോളജി സൌകര്യം വേണോ അല്ലെങ്കിൽ ഇൻവിട്രോ ഡെവലപ്മെൻറ് ബയോളജി സൌകര്യങ്ങൾ ആണോ അതുമല്ലെങ്കിൽ സെല്ലുമായി ബന്ധപ്പെട്ട ബയോ സെൻസറുകളാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് സെൽ ടിഷ്യു എൻജിനീയറിങ് പ്രധാനമായും പദാർഥങ്ങളുടെ സെല്ലുകളുമായോ കെമിക്കൽ ബയോളജിയുമായോ ഉള്ള റിയാക്ഷൻ അഥവാ പ്രവർത്തനങ്ങളാണ് പഠിക്കുന്നത് നിങ്ങൾ എവിടെയാണ് ഈ പലതരത്തിലുള്ള ഡ്രഗ് മോളിക്യൂളുകളെ പരിശോധിക്കുന്നത് അത് ഫ്ലുറെസെൻറ് മോളിക്യൂൾ ആണോ അതോ ബയോ മാർക്കറുകളാണോ സെൽ കൾച്ചർ സിസ്റ്റത്തിന്റെ ബയോ മാർക്കറുകൾ മീഡിയം ഡെവലപ്മെൻറ് സബ്സ്ട്രേറ്റ് ഡെവലപ്മെൻറ് എന്നിവയിൽ ഉള്ളതാണ് ബയോ മിംസ് എന്നാൽ ലൈവ് വസ്തുക്കളെ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇത് വച്ച് നമ്മൾ ഇത് വരെ പറഞ്ഞ ലക്ഷ്യങ്ങൾ ഒന്ന് കൂടി വ്യക്തമാക്കാം നമ്മൾ സ്ഥലപരിമിതിയെ പറ്റി പറഞ്ഞിരുന്നു അതായത് എത്ര കുറഞ്ഞ സ്ഥലമാണ് നിങ്ങൾക്ക് ഉള്ളത് സാമ്പത്തിക പരിമിതിയെ പറ്റിയും നമ്മൾ സംസാരിച്ചു ഏത് ലെവൽ സങ്കീർണതയാണ് നിങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത് അതിനുശേഷം അടുത്ത 10 കൊല്ലത്തേക്കുള്ള ദീർഘവീക്ഷണവും ഏതൊക്കെ തരം പുരോഗതിയാണ് ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയണമെന്ന് ഞാൻ പറഞ്ഞു അതുകൂടാതെ ഏതു ലെവൽ ബയോ സേഫ്റ്റിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നതെന്നും പറഞ്ഞിരുന്നു ഇവിടെ തൊട്ട് ഏതൊക്കെ തരം മുൻകരുതലുകളാണ് ലേയൌട്ട്കളെ പറ്റി ചിന്തിക്കുന്നതിനു മുമ്പ് കൈക്കൊള്ളേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഉദാഹരണത്തിന് നമ്മൾ വലിയൊരു ബിൽഡിങ് ആണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അതിന് മറ്റൊരു തരത്തിലുള്ള സുരക്ഷ തന്നെ ഒരുക്കിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് പല നിലകളുള്ള കെട്ടിടമാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് പുറത്തേയ്ക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ കൈക്കൊള്ളേണ്ട രണ്ട് സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണ് തെറ്റായ പ്ലാനിങ് വഴി ഉണ്ടാവാനിടയുള്ള ദുരന്തങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരു സെൽ കൾച്ചർ ലാബ് സെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നമ്മൾ ബയോളജിക്കലായി ആക്ടീവായ ഒരു മെറ്റീരിയലാണ് കൈകാര്യം ചെയ്യുന്നത് അത് ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കേണ്ട മെറ്റീരിയൽ ആണ് ഏറ്റവും ആദ്യം വേണ്ടത് അകത്തേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനുമുള്ള പ്രത്യേക വഴികളാണ് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ പ്രവേശന കവാടം ഉണ്ടായിരിക്കണം അതുപോലെതന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായാൽ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ വേഗം തന്നെ പുറത്തേക്കിറങ്ങാൻ കഴിയണം അപ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ഉള്ളതും പുറത്തേക്ക് ഉള്ളതുമായ വഴികൾ വളരെ കൃത്യമായിരിക്കണം അതായത് നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലെ മൂന്നാമത്തെ ക്ലാസിലാണ് W2L3 ഇവിടെ നമ്മൾ ലേയൌട്ടുകൾ ഡിസൈൻ ചെയ്യുന്നതിന് മുൻപുള്ള മുന്കരുതലുകളാണ് പറയുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ കൃത്യമായ തടസ്സങ്ങൾ ഒന്നും ഇല്ലാത്ത വഴികൾ അകത്തേക്കും പുറത്തേക്കും ഉണ്ടാവണം എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും കാണാറുള്ളതാണ് പല ആളുകളും ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്തരം ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ മറന്നു പോകാറുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ മാക്സിമം ഫ്ലോർ ഏരിയ അതായത് തറയുടെ വിസ്തീർണം ഉണ്ടാവാൻ ശ്രദ്ധിക്കണം അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു സൌകര്യം ഉണ്ടെന്നു വിചാരിക്കുക അതായത് ഇതാണ് നിങ്ങളുടെ മുറി ഇതാണ് അതിനുള്ളിലേക്ക് പോകാനും പുറത്തേക്കുമുള്ള വഴികൾ ഇപ്പോൾ നിങ്ങൾക്കു ഈ ബെഞ്ചുകൾ ക്രമീകരിക്കാനുള്ള അവസരമാണ് ഒരുപാട് കാലമായി ഉള്ള പ്രവർത്തന പരിചയം വച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്നാൽ ഈ ഭാഗമാണ് അതിനായി ഉപയോഗിക്കുന്നത് അതായത് ഞാൻ ഷേഡ് ചെയ്ത ഭാഗം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തറയുടെ വിസ്തീർണ്ണം കൂടുതലായിരിക്കും തറയെ ഞാൻ കുത്തുകളിട്ട് കാണിക്കാം ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നതിൽ ഒത്തിരി ഉപകാരങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ഇതുകൂടാതെ മറ്റ് രീതിയിലും ബെഞ്ചുകൾ ക്രമീകരിക്കാംഞാൻ അതിനെ നിങ്ങളുടെ രീതിക്ക് വിട്ടു തരുകയാണ് പല ആളുകളും പല രീതിയിലാണ് ചെയ്യുക അതെന്തായാലും ഞാൻ തെരഞ്ഞെടുക്കുകയില്ല ചില ആളുകൾ ടേബിളുകൾ നടുക്ക് കൊണ്ടുവയ്ക്കും അതല്ലെങ്കിൽ ഒരു ടേബിൾ ഇവിടെയും മറ്റൊന്ന് ഇവിടെയും വെക്കാം അങ്ങനെ പലതും ചെയ്യാൻ സാധിക്കും എന്നാൽ വർഷങ്ങളായി ഒത്തിരി ലാബുകൾ ഉണ്ടാക്കിയ പരിചയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ് ചുമരിന് അടുത്ത് ഭാഗം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എളുപ്പം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളുകൾ ബെഞ്ചുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം അതുകൂടാതെ ഈ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിനു അതായത് സ്റ്റോറേജ് ഏരിയ ചുമരുകളിൽ തന്നെ ക്രമീകരിക്കാം സ്റ്റോറേജ് ഏരിയ ക്രമീകരിക്കുമ്പോൾ അത് ഒത്തിരി ഉയരത്തിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം മുകളിലത്തെ ഷെൽഫിൽ പിന്നീട് ആവശ്യമെന്ന് തോന്നുന്ന വസ്തുക്കൾ സൂക്ഷിക്കാം അതുമല്ലെങ്കിൽ സ്റ്റോറേജിനു മാത്രമായി മറ്റൊരു സ്ഥലം കണ്ടെത്താം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ട് തരികയാണ് ഈ പറഞ്ഞതാണ് ഏറ്റവും അഭികാമ്യമായ സ്ഥലം ഉപയോഗപ്പെടുത്തുന്ന രീതി ഇപ്പോൾ എല്ലാ സെൽ കൾച്ചർ ലാബുകളിലും CO2 ഇൻക്യുബേറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് പിന്നീട് നോക്കാം നിങ്ങൾക്ക് ഈ ഇൻക്യുബേറ്റർ PH ക്രമീകരിക്കുന്നതിന് ആവശ്യമാണോ ഈ സമയത്ത് അത് പ്രധാനമല്ല എന്നാൽ നിങ്ങൾക്ക് ഒരു CO2 ഇൻക്യുബേറ്റർ വേണമെങ്കിൽ CO2 സിലിണ്ടറുകളും ആവശ്യമാണ് അവ വളരെ വലിയ സിലിണ്ടറുകളാണ് അപ്പോൾ അതിനായി സ്ഥലം കണ്ടെത്തേണ്ടിവരും അത് വാതിലിനടുത്തുള്ള ഒരു സ്ഥലം ആയിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ബോക്സ് പുറത്ത് വരയ്ക്കുകയാണ് പക്ഷേ എവിടെ വച്ചാലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ പല ആളുകളും ഇത് ഭാരമുള്ള സിലിണ്ടറുകളാണ് എന്ന വസ്തുത മറന്നു പോകും അവ വീഴാൻ പാടില്ല അതുകൊണ്ട് ശരിയായ മെറ്റാലിക് ക്ലിപ്പുകൾ തന്നെ സിലിണ്ടറുകളിൽ ഘടിപ്പിക്കുന്നത് വളരെ അത്യാവശ്യമാണ് എവിടെ വച്ചാലും അത് വീഴാതെ നോക്കണം രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സിലിണ്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക ഞാനീ സർക്കിൾ ചെയ്യുന്ന പ്രദേശം അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ഇൻക്യുബേറ്റർ ഉണ്ട് അതിന് മുകളിൽ ഞാൻ നീലനിറത്തിൽ വരച്ചത് നോക്കൂ അവിടെ നിങ്ങൾക്ക് ഒരു ഇൻക്യുബേറ്റർ ഉണ്ട് അതായത് ഇൻക്യൂബേറ്ററിനടുത്തു തന്നെ സിലിണ്ടർ വേണം അപ്പോൾ നിങ്ങൾ കൌണ്ടർ ടോപ്പുകൾ ആദ്യം ഉണ്ടാക്കരുത് അതായത് നിങ്ങൾ മൊത്തം കൌണ്ടർ ടോപ്പുകൾ ഉണ്ടാക്കുകയും ഇൻക്യൂബേറ്റർ വെക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സിലിണ്ടർ വെക്കാൻ ശരിയായ സ്ഥലം ഉണ്ടാവുകയില്ല അതിനാൽ നിങ്ങൾ കൌണ്ടർ ടോപ്പ് രൂപകൽപ്പന ചെയ്യുന്നതിന് മുമ്പുതന്നെ കൌണ്ടർ ടോപ്പ് ഇതുപോലുള്ള എന്തെങ്കിലും സ്ഥലത്തു തുടർച്ച നഷ്ടപെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു ഇതുപോലൊന്ന് ഈ നീല പേനയിൽ വളയുന്നത് പോലെ ഒന്നുകിൽ കോർണറിലുള്ള ഒരു ഇടം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ എല്ലാ സെല്ലുകളും കൈവശം വയ്ക്കുന്ന ഇൻക്യൂബേറ്റർ സൂക്ഷിക്കാൻ ഈ സ്ഥലം ഉപയോഗിക്കുക പ്രധാന ഗേറ്റിൽ നിന്ന് കഴിയുന്നത്ര അകലെ സൂക്ഷിക്കാൻ ഇത് സഹായിക്കും രണ്ടാമതായി ഇത് ഒരു കോണിൽ ആയിരിക്കണം ഇത് പുറത്തു നിന്ന് വരുന്ന വായുവുമായി നേരിട്ട് ബന്ധപ്പെടരുത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രവേശനം വഴി എല്ലായ്പ്പോഴും പ്രവേശന ഭാഗത്തു ഒരു വായു സഞ്ചാരമുണ്ടാകും അതിനാൽ ആ എയർ കറന്റ് വായു പ്രവാഹമുള്ള സോണിൽ നിന്ന് കഴിയുന്നിടത്തോളം അത് അകറ്റി നിർത്താൻ ശ്രമിക്കുക അതിനാൽ നിങ്ങളുടെ ഓപ്ഷൻ ഒന്നുകിൽ ഇവിടെ സൂക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അത് ഇവിടെ നിന്ന് മാറ്റുക എന്നതാണ് പക്ഷേ രണ്ട് സാഹചര്യങ്ങളിലും നിയോഗിക്കുന്ന 2 ഷേഡുള്ള സ്ഥലങ്ങൾ ഇവയാണ് നിങ്ങൾ ഒരു A കോണിൽ ഇട്ടാലും ഞാൻ D കോണിൽ ഇട്ടാലും ഇതാണ് ഇപ്പോൾ എൻട്രി പോയിന്റ് E നിങ്ങൾ ഇത് A യിൽ സ്ഥാപിച്ചാലും അല്ലെങ്കിൽ D യാണെങ്കിലും അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ നിർമ്മിക്കുന്ന ഈ കൌണ്ടറിൽ ഇവിടെ ഒരു ഗ്യാപ് ഉണ്ടാവുകയും സിലിണ്ടർ സൂക്ഷിക്കാൻ മതിയായ ഇടം ഉണ്ടായിരിക്കുകയുംചെയ്യണം അടുത്ത 2 വർഷത്തേക്ക് നിങ്ങൾ എത്ര ഇൻക്യൂബേറ്റർ വാങ്ങുമെന്ന് തീരുമാനിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലാബിന് ഒരു ഇൻക്യൂബേറ്റർ മാത്രമേ ആവശ്യമായി വരൂ നിങ്ങളുടെ ലാബിന് 2 ഇൻകുബേറ്ററുകൾ ആവശ്യമായി വന്നേക്കാം ഒരിക്കൽ CO2 ഇൻക്യൂബേറ്റർ ആവശ്യമാണ് മറ്റൊന്ന് CO2 ഇൻകുബേറ്ററില്ലാതെ നിങ്ങളുടെ ഇൻകുബേറ്റർ മാത്രം നമ്മൾ കണക്കിലെടുക്കേണ്ട പ്രധാന മാനദണ്ഡങ്ങളാണിവ ഇവ എത്രത്തോളം നിസ്സാരമെന്ന് തോന്നാം പക്ഷേ നാളെ നിങ്ങൾ ഒരു ലാബ് ആസൂത്രണം ചെയ്യുന്ന നേതാവായിരിക്കും അപ്പോൾ ആളുകൾ ഈ സൌകര്യങ്ങൾ ഒക്കെ വേണമെന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എത്ര ആളുകൾ ഈ ലാബ് ഉപയോഗിക്കും എന്നതാണ് അതായത് ഉപയോക്താക്കളുടെ എണ്ണം അതിനാൽ 2017 ൽ ഇവിടെയുള്ള ഉപയോക്താക്കളുടെ എണ്ണം n ആണെന്ന് കരുതുക നിങ്ങൾ അതിനായി മികച്ച സൌകര്യങ്ങൾ ആസൂത്രണം ചെയ്യണം അതുകൂടാതെ 2027 ൽ എത്ര ഉപഭോക്താക്കൾ ഉണ്ടാകുമെന്നൊരു മാർജിൻ വേണം കാരണം നിങ്ങൾ അത്തരം സൌകര്യം നിർമ്മിക്കാൻ പോകുന്നില്ല കൂടാതെ ഈ ഉപയോക്താക്കൾ വ്യത്യാസപ്പെടുന്നു നിങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റൽ സൌകര്യം ഉണ്ടാക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സൌകര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിഗത സൌകര്യം ഉണ്ടാക്കുകയാണോ ഇത് ഒരു വ്യക്തിഗത സൌകര്യമാണെങ്കിൽ ബിരുദധാരികൾ പോസ്റ്റ് ഗ്രാജ്വേറ്റ് വിദ്യാർത്ഥികൾ എത്ര പേർ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റൽ സൌകര്യമുണ്ടാക്കുകയാണെങ്കിൽ ഒരു പോസ്റ്റ് ഡോക് ഉണ്ടായിരിക്കും എത്ര ഫാക്കൽറ്റികളുണ്ടെന്നും അവയുടെ അനുബന്ധ ഉപയോക്താക്കളുടെ എണ്ണവും ഉദാഹരണത്തിന് 10 ഫാക്കൽറ്റികളുണ്ട് ഓരോ ലാബിലും ഇത് ഉപയോഗിക്കാൻ 2 അല്ലെങ്കിൽ 3 നിയുക്ത ആളുകളെ നിങ്ങൾക്കറിയാം അതിനാൽ നിയുക്തരായ ആളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 2 പതിറ്റാണ്ടുകളായി അനുഭവിച്ച അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അത്തരം പ്രത്യേക സൌകര്യങ്ങൾക്കായി എല്ലായ്പ്പോഴും നിയുക്ത ആളുകളെ നിയോഗിക്കുന്നതാണ് നല്ലതു ഒരുപാട് ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ അത് കണ്ടാമിനേഷൻ അഥവാ മലിനീകരണത്തിന് കാരണമാകും ഇത് നിങ്ങളുടെ സ്വകാര്യ സൌകര്യമല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോഴും കയറി ഇറങ്ങുന്നത് ശരിയല്ല ഇത് നിങ്ങളുടെ ലാബാണ് നിങ്ങളാണിതിന്റെ ബോസ് എന്നാൽ ഡിപ്പാർട്മെന്റൽ ആകുമ്പോൾ അതിനത്തിന്റേതായ പോരായ്മകളുണ്ടെങ്കിലും ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്നാൽ നിങ്ങൾക്കറിയാം ഈ മാസത്തിൽ നിങ്ങൾക്ക് ഇത്ര ആളുകളെ നിയോഗിക്കാം അതുമല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കാം അതിനാൽ എത്ര നിയുക്ത ഉപയോക്താക്കൽ ഉണ്ടെന്നത് ഞാൻ നിങ്ങള്ക്ക് വിട്ടു തരുന്നു അതിനാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ 2017 മുതൽ 2027 വരെ എത്ര ഉപയോക്താക്കൾ ഉണ്ടാകും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇൻകുബേറ്ററുകളെ നിങ്ങൾ ഇവിടെ നിയോഗിക്കേണ്ടതുണ്ട് അവർ എത്ര അലമാരകൾ ഉപയോഗിക്കും കാരണം ഇവ വിലയേറിയതാണ് വന്നു പോകാൻ സാധ്യതയേറെയാണ് അതിനാൽ തന്നെ ട്രെയിനിങ് കഴിഞ്ഞവർ തന്നെ അത് കൈകാര്യം ചെയ്യണം വേറൊരു കൂട്ടർ ശരിയായ രീതിയിൽ നൈഡ്രജൻ സിലിണ്ടറിൽ സൂക്ഷിച്ചുവെച്ച സെൽ ലൈനുകൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി സുരക്ഷിതമായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇത് തരംതിരിക്കാൻ പോകുന്നത് ഓരോരുത്തർക്കും അവരുടേതായ ഇൻക്യുബേറ്ററുകളുണ്ട് അങ്ങനെ എത്ര ഇൻക്യുബേറ്റർ ഉണ്ടാക്കാം അതിൻറെ കൂടെ തന്നെ ഗ്യാസ് മാനേജ്മെന്റും കൊണ്ടു പോകണം പല കൊല്ലങ്ങളായി ഞാൻ കാണുന്നതാണ് ഒരു ഗ്യാസ് ഫെസിലിറ്റി ഉണ്ടാകുംഎന്നാൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ ഗ്യാസ് കഴിഞ്ഞുപോയ കാര്യം ചൂണ്ടിക്കാണിക്കാൻ വിട്ടുപോകുന്നു അതുകൊണ്ടുതന്നെ സെല്ലുകൾ എല്ലാം ഗ്യാസ് ഇല്ലാതെ നശിച്ച പോകുന്നു ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അതിനാൽ ആദ്യം തന്നെ എത്ര ഉപഭോക്താക്കൾ ഉണ്ട് അവയ്ക്കെല്ലാം നിങ്ങൾ എങ്ങനെയാണു വിഭജിക്കാൻ പോകുന്നത് ഇതുകൂടാതെ ഉപയോഗിക്കുന്ന നിങ്ങളാണ് ഇതിൽ ജാഗ്രത പുലർത്തേണ്ടത് കൂടുതൽ ഒന്നും ഞാനിതിൽ പറയാനില്ല എന്നാൽ വീണ്ടും ഞാൻ നിങ്ങളോട് ജാഗ്രത പുലർത്താൻ ഓർമിപ്പിക്കുകയാണ് അടുത്തതായി സെൽ ലൈനുകൾ സൂക്ഷിക്കുന്ന ലാബുകളിൽ വേണ്ട കാര്യമെന്തെന്നാൽ സെല്ലുകൾ സൂക്ഷിക്കുന്ന ക്രയോക്യാനുകളാണ് അവിടെ നിങ്ങൾക്ക് ലിക്വിഡ് നൈട്രജൻ പോർട്ടുകളുണ്ട് ഇത് വളരെ രസകരമായ ക്യാനുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഏതാണ്ട് പാലിൻറെ ക്യാനുകൾ പോലെ തന്നെയാണ് എന്നാൽ കുറച്ചുകൂടി സർക്കുലറാണ് അതുപോലെ സെല്ലുകൾ അവിടെ സൂക്ഷിക്കാനായി ധാരാളം ഫോൾഡറുകളും ഉണ്ട് എനിക്കത് ശരിക്കും വരയ്ക്കാൻ സാധിക്കുന്നില്ല അതുകൂടാതെ മുകളിൽ ഒരു ക്യാപ്പ് ഉണ്ട് അതിലൂടെയാണ് നൈട്രജൻ ഉള്ളിലേക്ക് കൊടുക്കുക ഇവയിൽ നിങ്ങൾക്ക് വളരെ നല്ല ഹോൾഡർ പോലെയുള്ള ഒന്ന് ഉണ്ട് ഇത്തരത്തിലുള്ള ഹോൾഡറുകളിൽ നിങ്ങൾക്ക് ഈ ചെറിയ വയലുകൾ ഉണ്ട് അത്തരം വയലുകളെ ഇതിൽ അടുക്കി വയ്ക്കുക ഇതുപോലൊന്ന് അതിനാൽ ഇവ ഓരോ സെൽ കൾച്ചർ ലാബും അല്ലെങ്കിൽ അതിൽ നിലനിർത്തുന്ന സെൽ ലൈനുകൾ പരിപാലിക്കുകയും അവ ദ്രാവക നൈട്രജൻ താപനിലയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു അവ വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം അതെ അവസ്ഥയിൽ തുടരും എന്നാൽ അതിൽ ദ്രാവകമുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് നൈട്രജൻ കാലാകാലങ്ങളിൽ അതിൽ വീണ്ടും നിറയ്ക്കണം നിങ്ങൾ അത് തുറക്കുമ്പോഴെല്ലാം ദ്രാവക നൈട്രജന്റെ കുറവുണ്ടാകുന്നു അതിനാൽ കൃത്യമായ ഇടവേളയിൽ അത് മാറ്റിസ്ഥാപിക്കണം അതിനാൽ അവ എവിടെ സൂക്ഷിക്കണമെന്ന് നിങ്ങൾ മനസിലാക്കണം കാരണം ഇവ ഏറ്റവും ഭാരം കൂടിയവയാണ് അതിനാൽ ഡിസൈനിലേക്ക് മടങ്ങിവരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നിയുക്ത സ്ഥലം ഉണ്ടായിരിക്കണം ഒരു മികച്ച സ്ഥലമാണെന്ന് നിങ്ങൾ കരുതുന്ന ഒരു സ്ഥലം ഇതിനായി ഉണ്ടായിരിക്കണം എനിക്ക് ഇത് ഇവിടെ സൂക്ഷിക്കാൻ കഴിയും കാരണം നിങ്ങൾ ഇത് ലാബിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴോ നൈട്രജൻ ക്യാനിൽ കൊണ്ടുവരേണ്ടതായോ ഉണ്ടെന്നു നിങ്ങൾക്കറിയാം അതിനാൽ ഇവിടെ നിന്ന് ഒത്തിരി ദൂരമില്ലെന്നുറപ്പാക്കണം പക്ഷേ ഇത് ഞങ്ങളെ മറ്റൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങൾക്ക് ഈ കോണിൽ ഒരു ഇൻകുബേറ്റർ ഉള്ളപ്പോഴെല്ലാം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കാർബണേറ്റ് ഓക്സൈഡ് സിലിണ്ടർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം അതിനാൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴെല്ലാം ദയവായി ഉറപ്പുവരുത്തുക നിങ്ങൾ മുഴുവൻ തറയും നശിപ്പിക്കരുത് ആ നൈട്രജൻ സിലിണ്ടറോ സോറി കാർബൺ ഓക്സൈഡ് സിലിണ്ടറോ CO2 വൃത്തി ഉള്ളതാണെന്ന് ഉറപ്പു വരുത്തണം ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് മിക്ക സിലിണ്ടറുകളും വന്നാലുടൻ വൃത്തിയാക്കുന്നുവെന്ന് ഉറപ്പാക്കുക നിങ്ങൾ അവയെ ശരിയായി അടുക്കി വയ്ക്കണം നിങ്ങൾക്കാവശ്യമുള്ളപ്പോഴെല്ലാം ഒരു ആൽക്കഹോൾ അല്പംതളിച്ച് വൃത്തിയാക്കി ഉപയോഗിക്കുകഅത് പോലെ തന്നെ സൈഡിൽ കൂടി എടുക്കാൻ ശ്രെദ്ധിക്കുക എന്തുകൊണ്ടെന്നാൽ നടുവിൽ കൂടി എടുത്താൽ അത് തറയെ നശിപ്പിക്കും അതിനാൽ അതിനുശേഷം ഞാൻ നിങ്ങളോട് നൈട്രജൻ എവിടെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇവ സെൽ ലൈൻ സംഭരണ ക്യാനുകളാണെന്നും ദ്രാവക നൈട്രജൻ പതിവായി വിതരണം ചെയ്യുന്നത് ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞു അതായത് ഉപയോഗിച്ച നൈട്രജൻ ദ്രാവകം നിറയ്ക്കുക അതിനുള്ള സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ദ്രാവക നൈട്രജൻ കൊണ്ടുവരാൻ കുറഞ്ഞത് ഒരു ക്യാൻ പിന്നെ മറ്റൊന്നും കൂടി ഉണ്ടായിരിക്കണം അതിനാൽ നിങ്ങൾ ഒരു സെൽ ലൈൻ പരിപാലിക്കുകയാണെങ്കിൽ കുറഞ്ഞത് 2 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇത് രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ മികച്ചരീതിയിൽ പ്രവർത്തിക്കാം കൂടാതെ ഇത്തരത്തിലുള്ള പാത്രങ്ങൾക്ക് വ്യത്യസ്ത വലുപ്പങ്ങളുണ്ടെന്നും നിരവധി ലാബുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലതരം വലുപ്പങ്ങൾ അവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ശരിക്കും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി നിങ്ങൾ എത്രമാത്രം സെല്ലുകൾ സംഭരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കണം ഇതിനെക്കുറിച്ചുള്ള രണ്ടാമത്തെ പ്രധാന ഭാഗം നിങ്ങൾ വളരെ വലുത് എടുക്കുകയാണെങ്കിൽ അതിന്റെ ചലനം ഒരു പ്രശ്നമായിരിക്കും എല്ലായ്പ്പോഴും ഒരു പ്രശ്നമായിരിക്കും നിങ്ങൾ വളരെ ചെറിയ ഒന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര അളവ് സംഭരിക്കാൻ കഴിയുമെന്നതൊരു പ്രശ്നമാണ് ഇതിനിടയിൽ എവിടെയെങ്കിലും ആയിരിക്കണം അതിന്റെ വലുപ്പം അതിന്റെ ചലനാത്മകത അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു വെല്ലുവിളിയാകരുത് അതിനാൽ ഈ ഭാഗം നിങ്ങൾ വീണ്ടും മനസിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇതെല്ലാം ഇപ്പോൾ ആസൂത്രണ ഗെയിമിൽ വരുന്നു ഡിസൈൻ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അതിനാൽ നിങ്ങൾക്ക് ഒരു കോണിൽ CO2 സിലിണ്ടറും CO2 ഇൻകുബേറ്ററും ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവ പരിപാലിക്കേണ്ടത് നിർണായകമാണ് നിർദ്ദിഷ്ട സ്ഥലത്ത് സിലിണ്ടറിന്റെ സംഭരണത്തെക്കുറിച്ച് സംസാരിച്ചു അവർ താഴെ വീഴാതിരിക്കാൻ ചങ്ങലകളോ ക്ലാമ്പുകളോ ഉപയോഗിച്ച് ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ മറ്റൊരു പ്രധാനപെട്ട എനിക്ക് അനുഭവപരിചയമുള്ള കാര്യം എന്തെന്നാൽ സിലിണ്ടറുകൾ എല്ലായ്പ്പോഴും ഒരു ട്രോളി വഴി വേണം കടത്താൻ ബിരുദ വിദ്യാർത്ഥികൾ സിലിണ്ടർ ഇതുപോലെ ഉരുട്ടി ചലിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വളരെ അപകടകരമായ ഒരു പരിശീലനമാണ് ദയവായി നിങ്ങൾ ഒരു ലേഔട്ട് സൌകര്യം രൂപകൽപ്പന ചെയ്യുമ്പോൾ ഹുക്കുകളുള്ള ഒരു ചെറിയ ട്രോളി വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ഷോപ്പിൽ നിന്ന് ഹുക്ക് അറ്റാച്ചുചെയ്യാം അതിനാൽ ഇത് നിങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ചുറ്റുമുള്ള എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നു ദയവായി ട്രോളിക്കായി നിങ്ങൾ ഒരു നിയുക്ത ഇടം കണ്ടെത്തണം മറ്റാരെങ്കിലും മറ്റ് ആവശ്യത്തിനായി എടുക്കുന്നില്ലെന്നും ദയവായി ഉറപ്പുവരുത്തുക അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾക്കൊപ്പം ട്രോളിയും ഉണ്ടായിരിക്കണം നിങ്ങൾ ട്രോളിയിൽ സിലിണ്ടർ എടുത്ത് കൊണ്ടുവരിക നിങ്ങൾക്ക് ഒരു ചെറിയ ട്രോളി കൂടി ആവശ്യമായി വരാം ഇത് അല്പം വ്യത്യസ്തമാണ് ഒരു വലിയ ബക്കറ്റ് പോലെ നിങ്ങളുടെ കൈയ്യിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ചെറിയവ വാങ്ങുക എന്നാൽ വലിയവ എല്ലായ്പ്പോഴും ഒരു പ്രശ്നമാണ് അതിനാൽ ഇവ തുടക്കത്തിലെ ചിലതാണ് അതിനാൽ ഈ പ്രക്രിയയിൽ ലേഔട്ട് മുതൽ എല്ലാ അടിസ്ഥാന ആവശ്യകതകളെ പറ്റിയും നമ്മുക്ക് തുടരാം